സമഗ്രമായ ചേർച്ചയുള്ള പാളികൾ ആമുഖം അതിനാൽ ഇപ്പോൾ ഈ സമഗ്രമായ ചേർച്ചയുള്ള പാളികളിലൂടെയുള്ള പ്രതിവിധി നമുക്ക് നോക്കാം അതിനാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ താരതമ്യേന ഇത് 1994 ൽ ബെറെഞ്ചർ പ്രസ്താവിച്ച മണ്ഡലത്തിലെ പുതിയ വികസനമാണ് തുടർന്ന് പലരും ഇതേ ആശയം പുനർവ്യാഖ്യാനം ചെയ്യുകയും പരിഷ്കരിക്കുകയും ചെയ്തു അതിനാൽ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ട് ഗുണങ്ങൾ നമുക്ക് പട്ടികപ്പെടുത്താം അതിനാൽ ആദ്യത്തേത് എല്ലാ കോണുകളിലും തരംഗങ്ങൾ നിരീക്ഷിക്കുന്നു എന്നതാണ് അതിനാൽ ഏത് കോണിനും ആയിരിക്കും രണ്ടാമത്തേത് ഇത് പരിണാമ തരംഗങ്ങൾക്ക് പ്രവർത്തിക്കുന്നു അതിനാൽ ചില അർത്ഥത്തിൽ ഇത് നമ്മുടെ ആഗ്രഹങ്ങളുടെ പട്ടികയാണ് ഇത് PML എന്ന് വിളിക്കപ്പെടുന്നു പ്രകൃതി നമുക്കു വേണ്ടി ഈ പട്ടികയിലെ രണ്ട് ഇനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നു അതിനാലാണ് ഇത് ഈ മേഖലയിലെ വളരെ മികച്ച കണ്ടെത്തലായത് ഇപ്പോൾ നമ്മൾ ഇത് രൂപപ്പെടുത്തുന്നതിനുമുമ്പ് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രചോദനം നൽകാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ഇവിടെയുള്ള എന്റെ കണക്കുകൂട്ടൽ പ്രദേശമാണെന്ന് നമുക്ക് പറയാം ഈ തരംഗം ഇവിടെ വരുന്നുണ്ടാകാം അതായത് ഈ അതിർത്തിയിലേക്ക് അത് ഈ കോണിൽ വന്നേക്കാം അതിനാൽ ഈ രണ്ട് അതിരുകളും പ്രധാനമല്ല തരംഗങ്ങൾ ഇവിടെ എല്ലാ കോണുകളിലും വരുന്നു അങ്ങനെ ABC ഉപയോഗിച്ച് അവ ശരിയായി പ്രതിഫലിക്കുന്നുവെന്ന് നമ്മൾ കണ്ടെത്തുന്നു ഇപ്പോൾ ആ പ്രതിഫലനം ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു തരംഗം അതിൽ പതിക്കുന്നതെന്തും നിരീക്ഷിക്കുക എന്നതാണ് അതിൽ എങ്ങനെയെങ്കിലും വീഴുന്നുവെന്ന് എനിക്ക് ഏതെങ്കിലും രീതിയിൽ നിരീക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവിടെ ഒരു പ്രതിഫലനവും ഉണ്ടാകില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മുറിയിൽ പോയി സംസാരിക്കുന്നു അപ്പോൾ ശബ്ദ തരംഗങ്ങളെ ആ ചുവരുകൾ പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ ചുവരുകളിൽ ആഗിരണം ചെയ്യുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിധ്വനി കേൾക്കാനാവില്ല അതിനർത്ഥം അവിടെ പ്രതിഫലനം ഇല്ല എന്നാണ് അതിനാൽ ആഗിരണം ചെയ്യുന്ന ചില വസ്തുക്കൾ എനിക്ക് ഇവിടെ വയ്ക്കാമെന്നതാണ് ആശയം ഇപ്പോൾ എനിക്ക് ഒരു സാധാരണ വസ്തു ഉപയോഗിക്കാമോ ഞാൻ ഒരു വലിയ നഷ്ട ഗുണകം ഉള്ള എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചാൽ അത് പ്രവർത്തിക്കുമോ അപ്പോൾ അതിൻറെ അപവർത്തനാങ്കത്തിൽ ചില മാറ്റങ്ങളുണ്ടാകും അതിനാൽ ലംബമായ പതനത്തിനു പോലും പ്രതിഫലന ഗുണകം ആയിരിക്കും ഇപ്പോൾ n എന്നത് 1 അല്ലാതെ മറ്റെന്തെങ്കിലുമാണെങ്കിൽ സങ്കീർണ്ണമാണെങ്കിൽപ്പോലും അവിടെ ഒരു പ്രതിഫലനം ഉണ്ടായിരിക്കും നഷ്ടം സംഭവിക്കുന്ന മാധ്യമത്തിലും അപവർത്തനാങ്കം n സങ്കീർണ്ണമാകുന്നു നഷ്ടം ഉണ്ടെങ്കിലും അവിടെ പ്രതിഫലനം ഉണ്ടാകും അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ മറികടക്കും പൂർണ്ണമായും ആഗിരണം ചെയ്യുന്ന വസ്തു ഇത് ചെയ്യുമെന്ന് തോന്നുന്നില്ല അതിനാൽ ഇവിടെ മറ്റേതെങ്കിലും വ്യത്യസ്തമായ പരിഹാരങ്ങൾ ഉണ്ടോ വളരെ ശരിയാണ് അതിനാൽ ഇത് n ആണ് ഒരു ലളിതമായ ലംബമായ പതനത്തിൽ പ്രതിഫലന ഗുണകം ആയിരിക്കുമെന്ന് നമുക്ക് പറയാം അതിനു നഷ്ടത്തിൻറെ വർദ്ധനവ് വളരെ പതുക്കെ ആവുകയാണ് വേണ്ടത് അതിനാൽ സാങ്കേതികമായി അതിനെ എന്തു വാക്കിൽ പറയാം അഡിയാബാറ്റിക് നമുക്കിവിടെ വളരെ സാവധാനത്തിലുള്ള വർധനവാണ് വേണ്ടത് അതിനാൽ കൃത്യമായ വാക്ക് അഡിയാബാറ്റിക് എന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതാണ് അതിർത്തി എന്ന് കരുതുക ഇത് 0 ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ച ഭാഗം ഇതുപോലെ വലുതാക്കാം ഇതാണ് നിങ്ങളുടെ അതിർത്തി അതിനാൽ അതിർത്തിയിൽ n ന്റെ മൂല്യം എന്താണ് അവിടെ നഷ്ടം പൂജ്യമാണ് അതിനാൽ അതിർത്തിയിൽ ആയിരിക്കും ഇനി നമുക്ക് ആരംഭിക്കാം അതിനാൽ ഏതെങ്കിലും വിധത്തിൽ തരംഗം അകത്തേക്ക് പ്രവേശിക്കുന്നു അവിടെ ഒന്നും ഇല്ലാത്തതിനാൽ അത് സാവധാനം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ക്രമേണ ഒരു നഷ്ട ഘടകത്തെ വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അത് മിതമായി ആഗിരണം ചെയ്യാൻ കഴിയും അതിനാൽ ചിലർ ഇതിനെ ഒരു പാവപ്പെട്ടവന്റേയോ പാവപ്പെട്ടവളുടേയോ PML എന്ന് വിളിക്കുന്നു നഷ്ടം ക്രമേണ വർദ്ധിപ്പിക്കുക അപ്പോൾ പ്രതിഫലന ഗുണകം വളരെ കുറയുന്നു അതിനാൽ ഇത് എല്ലാ കോണുകൾക്കും ചില പ്രതിഫലനങ്ങളുണ്ടെന്ന വസ്തുത നടപ്പിലാക്കുന്നതിനുള്ള ഒരു ന്യായമായ മാർഗമാണ് ഇപ്പോൾ എന്റെ ആഗ്രഹപ്പട്ടിക തൃപ്തിപ്പെടുത്തുന്നതിന് എനിക്ക് ചില പ്രത്യേക തരത്തിലുള്ള നഷ്ടം ആവശ്യമാണെന്ന വസ്തുതയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനാൽ ഒരു പ്രത്യേക തരത്തിൽ ആഗിരണം ചെയ്യുന്ന വസ്തുവാണ് PML എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നമ്മൾ ഇതിനകം തന്നെ ലളിതമായ സാമാന്യവസ്തുതകളിലൂടെ കടന്നുപോയി അതിൽ നഷ്ടം ക്രമേണ വർദ്ധിക്കുന്ന ഒരു തരം ആഗിരണ ശക്തിയുള്ള വസ്തു നമ്മൾ കണ്ടെത്തി അതിനാൽ സാഹിത്യത്തിൽ PML ന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് അതിനാൽ നമ്മുടെ യുക്തി വിപുലീകരിക്കുന്നതായി നമ്മൾ അതിനെ ആഗിരണം ചെയ്യുന്ന വസ്തു വിളിക്കും പക്ഷേ ഇത് ആഗിരണം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വസ്തുവല്ല അത് ആനൈസോട്രോപിക് ആയിരിക്കും അതിനാൽ ഞാൻ അതിൻറെ സമവാക്യം കണ്ടെത്തുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നു ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഐസോട്രോപിക് വസ്തുക്കളാണ് അവയുടെ നഷ്ടം എല്ലാ ദിശയിലും തുല്യമായിരിക്കും എന്നാൽ ഞാൻ വ്യത്യസ്ത ദിശകളിൽ വ്യത്യസ്ത നഷ്ടങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ഞാൻ ഒരു നല്ല ആഗിരണം ചെയ്യുന്ന വസ്തുവിൽ എത്തിച്ചേരുന്നു രണ്ടാമത്തെ വ്യാഖ്യാനം കൂടുതൽ ഗണിതപരമാണ് ഇതിനെ കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് രീതി എന്ന് വിളിക്കുന്നു ഇവ രണ്ടും നിങ്ങളുടെ PML ൻറെ നും നും ഒരേ മൂല്യങ്ങൾ നൽകുന്നു അതിനാൽ രണ്ട് വ്യത്യസ്ത തരംഗങ്ങളിൽ നിന്ന് കാണുന്ന ഒരേ തത്വമാണ് ആദ്യ തരംഗം ഭൌതികശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള തരംഗമാണ് രണ്ടാമത്തെ തരംഗം കൂടുതൽ ഗണിതത്തെ അടിസ്ഥാനമാക്കിയുള്ള തരംഗമാണ് അതിനാൽ ഇത് ഭൌതികശാസ്ത്രമാണ് ഇത് ഗണിതമാണ് ഇപ്പോൾ നമ്മൾ ഏത് വ്യാഖ്യാനമാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അതെ ശരിയാണ് അതിനാൽ നമ്മൾ ഗണിതത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യാഖ്യാനം തിരഞ്ഞെടുക്കാൻ പോകുന്നു കാരണം ഞാൻ ഈ വ്യാഖ്യാനം ശരിയായി തിരഞ്ഞെടുത്താൽ എളുപ്പമാകും ഭൌതികശാസ്ത്രം അടിസ്ഥാനമാക്കിയുള്ള വ്യാഖ്യാനം വളരെ ആകർഷകമാണ് എന്നാൽ ഗണിതം കൂടുതൽ സങ്കീർണമാകുന്നു കാരണം എനിക്ക് ആനിസോട്രോപിക് മാധ്യമം ഉള്ളപ്പോൾ എനിക്ക് ടെൻസറുകളും മറ്റുമായി കൈകാര്യം ചെയ്യേണ്ടിവരും എന്നാൽ ഈ കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് രീതി വളരെ മനോഹരവും ലളിതവുമാണ് അതിനാൽ ഈ കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് സമീപനത്തിൽ നമ്മൾ ചെയ്യുന്നത് വളരെ രസകരമായിരിക്കും അതിനാൽ നമ്മുടെ സാധാരണ മാക്സ്വെല്ലിന്റെ സമവാക്യം എന്താണ് ഈ രീതിയുടെ സൌന്ദര്യം മാക്സ്വെല്ലിന്റെ സമവാക്യത്തോടെ ആരംഭിക്കുക എന്നതാണ് അതിനാൽ നമ്മുടെ സാധാരണ മാക്സ്വെല്ലിന്റെ സമവാക്യം നമുക്ക് എഴുതാം അതിനാൽ ശരിയല്ലേ നമുക്ക് കാര്യങ്ങൾ ലളിതമാക്കാം സമയത്തെ ആശ്രയിക്കുന്നതാണെന്ന് കരുതുക അതിനാൽ ഇത് ആയി മാറുന്നു നെ ഞാൻ എന്നെഴുതും അതുപോലെ മറ്റ് രണ്ട് സമവാക്യങ്ങളും എഴുതാം ഇപ്പോൾ ഇവിടെ തന്നെ കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് സമീപനം വളരെ രസകരമായ ഒരു വഴി അവതരിപ്പിക്കുന്നു അതിനാൽ എന്താണ് പറയുന്നത് എന്നാൽ നമുക്ക് ഡെൽ ഓപ്പറേറ്ററെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം അതിനാൽ മറ്റ് രണ്ട് സമവാക്യങ്ങൾ ഞാൻ എഴുതട്ടെ അതിനാൽ ഈ സമവാക്യങ്ങളിലെല്ലാം ഞാൻ അത് ചെയ്യാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാം വിദ്യാർത്ഥി ക്ഷമിക്കണം ക്ഷമിക്കണം കേട്ടില്ല വിദ്യാർത്ഥി ആ വസ്തു അതെ ഇല്ല എല്ലാം ലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടു അപ്പോൾ സങ്കീർണമാകാം കൂടാതെ സങ്കീർണം ആകാം അതിനാൽ ഞാൻ ചെയ്യുന്നത് ഈ ഓപ്പറേറ്ററെ പുനർനിർവചിക്കുന്നു അത് ഞാനിപ്പോൾ വിവരിക്കുന്നതാണ് അപ്പോൾ എന്താണ് ആദ്യം നമുക്ക് എഴുതാം അപ്പോൾ എന്താണ് അത് ഈ മൂന്നുമാണ് ഇപ്പോൾ എന്താണ് കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഓരോ കോർഡിനേറ്റുകളും ഞാൻ തിരഞ്ഞെടുക്കുന്ന ചില സംഖ്യകളിലൂടെ നീട്ടാൻ പോകുന്നു ആ സംഖ്യ എന്താണ്

ഇത് വിചിത്രമായി തോന്നുന്നു പക്ഷേ സമീപനം അതായിരിക്കും അതിനാൽ ഞാൻ ഇതിൽ ഓപ്പറേറ്ററെ പുനർനിർവചിക്കുന്നു അതിനാൽ ഞാൻ ഇപ്പോൾ ഭൌതിക ലോകം വിട്ട് ഒരു ഗണിത ലോകത്തേക്ക് പ്രവേശിച്ചു അവിടെ ഞാൻ എന്നൊരു പുതിയ ഓപ്പറേറ്ററെ സൃഷ്ടിച്ചു അത് എന്ന മൂല്യങ്ങൾക്കായി ഭൌതിക ലോകത്തോട് യോജിക്കുന്നു ഇത് ചെറുതാണ് എന്നിവ അദിശങ്ങളാണ് അവയ്ക്ക് യാതൊരു ഭൌതിക പരിമിതികളുമായും ബന്ധമില്ല അതുപോലെ തന്നെ എന്നതിനെ ഞാൻ ചെറുതായി എന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്നു ഇവയാണ് പുതിയ ഓപ്പറേറ്ററുകൾ അതിനാൽ ഞാൻ ഈ ഓപ്പറേറുകളെ എടുക്കുകയും ഇവിടെ നിന്ന് തരംഗ സമവാക്യം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ എന്തായിരിക്കും ലഭിക്കുക അതിനാൽ തരംഗ സമവാക്യത്തിന് ഒരു പരിഹാരമാണെന്ന് നമുക്കറിയാം സമയം ഇവിടെ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഞാൻ ഈ വ്യാഖ്യാനം ഇവിടെ എടുക്കുകയും നിങ്ങൾ വിചാരിക്കുന്ന തരംഗ സമവാക്യം ഞാൻ പുനർനിർണയിക്കുകയും ചെയ്താൽ പരിഹാരം പോലെ ഒരു തരംഗം എനിക്ക് ലഭിക്കുമോ അതിനാൽ എനിക്ക് ഒരു തരംഗം പോലെ ഒരു പരിഹാരം ലഭിക്കും പക്ഷേ ആ തരംഗത്തിന് ഘടകം അല്ലെങ്കിൽ എന്ന ഘടകം ഉണ്ടാകും അതിനാൽ എനിക്ക് ഒരു തരംഗത്തിനു സമാനമായ പരിഹാരം ലഭിക്കും പക്ഷേ ആ തരംഗത്തിന് അതിൻറെ വർഗ്ഗത്തിൽ ൻറെയോ ൻറെയോ ഘടകം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചോദ്യം വളരെ ലളിതമാണ് ഒരു 1D തരംഗം എടുക്കുക അതിൽ നിങ്ങൾക്ക് തരംഗത്തിനു സമാനമായ പരിഹാരം ലഭിക്കും എന്ന് കണ്ടെത്തുക അതിനാൽ എന്നത് ഒരു പരിഹാരമാകുമെങ്കിൽ ക്ക് കുറച്ച് വ്യാഖ്യാനം ആവശ്യമാണ് അതിനാൽ എങ്ങനെയെങ്കിലും കളും കളും യ്ക്കുള്ളിൽ എങ്ങനെയെങ്കിലും ദൃശ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം അല്ലാത്തപക്ഷം അത് വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം അതൊഴിവാക്കാൻ ഒരു മാർഗ്ഗവുമില്ല അതിനാൽ ഇത് ഇതുവരെ അൽപ്പം അവ്യക്തമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോയി ഒരു 1D ഉദാഹരണം എടുക്കുന്നു വിദ്യാർത്ഥി ഇവിടെയുണ്ടോ തമ്മിൽ ബന്ധമുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം എന്നതും എന്നതും തമ്മിൽ കൂടുതൽ ബന്ധമുണ്ടോ ഉത്തരം ഉണ്ടെന്നാണ് അത് എങ്ങനെയെന്നും അതിൻറെ ബന്ധം എന്താണെന്നും നമുക്ക് കാണാം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മാക്സ്വെല്ലിന്റെ തരംഗ സമവാക്യങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങുമ്പോൾ ആ ബന്ധങ്ങൾ വരുന്നു അതിനാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഈ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പുറത്തെടുക്കാൻ നമ്മളിവിടെ കൃത്രിമത്വം ചെയ്യുന്നു പ്രകൃതിയല്ല ഇത് നൽകുന്നത് അതിനാൽ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് ഉപകരണമാണെന്ന് ഓർമ്മിക്കുക ഓപ്പറേറ്ററിനുള്ളിലെ കോർഡിനേറ്റുകൾ നമ്മൾ സ്കെയിൽ ചെയ്യുന്നു